നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഒരൊറ്റ MOS ട്രാൻസിസ്റ്ററിന് ചുറ്റും ഗെയിൻ ഒന്നായ ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ് നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ച സോഴ്സ് ഫോളോവർ ഇതാ നമ്മൾ വിശകലനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഗൈൻ ആയുളള എക്സ്പ്രഷനും നമ്മൾക്കറിയാം ഇപ്പോൾ കുറച്ച് ചെറിയ വിശദാംശങ്ങൾ അവശേഷിക്കുന്നു ഒന്ന് ചാനൽ ലെങ്ത് മോഡുലേഷന്റെ ഫലമാണ് അത് ട്രാൻസിസ്റ്ററിന്റെ പൂജ്യമല്ലാത്ത ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് തുടർന്ന് C1 C2 എന്നിവയിലെ തടസ്സങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ഇവ ഓരോന്നായി എടുക്കാം സ്മാൾ സിഗ്നൽ ചിത്രം ഇതാണ് കപ്പാസിറ്ററുകൾ സിഗ്നൽ ഫ്രീക്വൻസിയിൽ ഷോർട്ട് സർക്യൂട്ടുകൾ പോലെ കാണപ്പെടുന്നുവെന്ന് ഞാൻ അനുമാനിക്കും C2 അവിടെ ഉണ്ടാകുമായിരുന്നു ഇത് vgs ആണ് കറന്റ് gmvgs ആണ് ഇപ്പോൾ ഇത് തീർച്ചയായും ട്രാൻസിസ്റ്ററിന് ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഇല്ലെന്ന് അനുമാനിക്കുന്നു പക്ഷേ ഒരു ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഉണ്ടെങ്കിൽ അത് gds ഉള്ളിടത്ത് MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനും സോഴ്സ് ടെർമിനലുകളും തമ്മിൽ ബന്ധിപ്പിക്കും ഇതിന്റെ ഫലം വിശകലനം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഈ gds RL ൽ ഉടനീളം ദൃശ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ RL ൽ ഉടനീളം rds ദൃശ്യമാകുന്നു അതിനാൽ ഇതിനർത്ഥം നിങ്ങൾക്ക് RL ഉള്ളിടത്തെല്ലാം എല്ലാ എക്സ്പ്രഷനുകളിലും ഇത് RL || rd ലേക്ക് മാറ്റണം ഇത് ഗൈനിനുള്ള എക്സ്പ്രഷനിലാണ് ഒറിജിനൽ സർക്യൂട്ടിനായി നമ്മൾക്ക്gmRL1gmRLഉണ്ട് rds ഇൻഫിനിറ്റിക്ക് തുല്യമാണ് അല്ലെങ്കിൽ gds പൂജ്യത്തിന് തുല്യമാണ് ഇത് gmRL||rds1gmRL||rds ആയി മാറ്റണം അല്ലെങ്കിൽ ഇത് എഴുതാനുള്ള മറ്റൊരു മാർഗം ggmgmGLgds ആണ് ഏതാണ്ട് ഗൈൻ 1 നുള്ള വ്യവസ്ഥ gmRL || rds 1 അല്ലെങ്കിൽ gm GL gds എന്നതാണ് ഇത് ഇൻപുട്ട് റെസിസ്റ്റൻസിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല ഈ സാഹചര്യത്തിൽ ഞാൻ R1 || R2 കാണിച്ചില്ല പക്ഷേ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ കാണുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ RL ബാധിക്കില്ല പൊതുവേ ഇത് ഒരു സർക്യൂട്ടിൽ ആകാം എന്നാൽ ഈ സാഹചര്യത്തിൽ അങ്ങനെയല്ല അതിനാൽ Rin ബാധിച്ചിട്ടില്ല ഗൈൻ ബാധിക്കുന്നു ഗൈൻ അൽപം കുറയ്ക്കും കാരണം നിങ്ങൾക്ക് RL ന് പകരം ഒരു അധിക ലോഡ് ഉണ്ട് നിങ്ങൾക്ക് RL || rds ഉണ്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സർക്യൂട്ടിൽ പകർത്തട്ടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആ രീതിയിൽ നോക്കുന്നു vi പൂജ്യമായി സജ്ജമാക്കി അതിനർത്ഥം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി മാറുന്നു ഇത് കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് ഒന്നാമതായി ഈ gds ഔട്ട്പുട്ട് ടെർമിനലിനും ഗ്രൌണ്ടിനുമിടയിൽ ദൃശ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നമ്മൾ മുമ്പ് കണക്കാക്കിയ ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് gm ന് തുല്യമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അധിക gds ഉണ്ടാകും പക്ഷേ നമ്മൾക്കത് വിലയിരുത്താനും കാണാനും കഴിയും ഞാൻ ഇവിടെ VTEST പ്രയോഗിക്കുകയാണെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് പൂജ്യമാണ് കാരണം ഇത് പൂജ്യമാണ് കൂടാതെ ഗേറ്റിലേക്ക് കറന്റ് ഒഴുകുന്നില്ല സോഴ്സ് വോൾട്ടേജ് VTEST ലും ഉണ്ട് അതിനാൽ vgs VTEST ആണ് അതിനാൽ ഇവിടെ ഈ കറന്റ് സോഴ്സ് gmVTEST ആണ് ഇവിടെ പോകുന്ന മൊത്തം കറന്റ് ഈ മുകളിലേക്ക് പോകുന്ന കറന്റും പ്ലസ് ഈ മുകളിലേക്ക് പോകുന്ന കറന്റും ആണ് ഈ മുകളിലേക്ക് പോകുന്ന കറന്റ് VTESTgds ആണ് അതിനാൽ ഈ മൊത്തം കറന്റ് gmVTEST ആണ് അത് ലളിതമായി മുകളിലേക്ക് പോകുന്ന gmVTEST ആണ് അതിനാൽ മൊത്തം കറന്റ് gmgdsVTEST ആയിരിക്കും അതിനാൽ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് വോൾട്ടേജാൽ ഹരിക്കപ്പെടുന്ന കറന്റാണ് കൂടാതെ വ്യക്തമായും ഇത് നിങ്ങൾക്ക് gmgds നൽകുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1gmgds ആണ് ഇപ്പോൾ സാച്ചുറേഷൻ മേഖലയിലെ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുമ്പോൾ gm gds നേക്കാൾ കൂടുതലായിരിക്കാം അതിനാൽ ഇത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ വളരെയധികം മാറ്റില്ല ഇത് അൽപ്പം മാത്രമേ കുറയ്ക്കൂ ഇപ്പോൾ കപ്പാസിറ്ററുകൾ ഉൾപ്പെടെ സ്മാൾ സിഗ്നൽ ഇക്വലന്റ് ഞാൻ വരയ്ക്കും അതുവഴി നിങ്ങൾക്ക് അവയിൽ തടസ്സങ്ങൾ കണ്ടെത്താനാകും ഇൻപുട്ട് വോൾട്ടേജ് Rs C1 ഇതാ നമുക്ക് R1 || R 2 ഗേറ്റ് ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിൽ ഉണ്ട് ഡ്രെയിൻ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു കപ്പാസിറ്റർ C2 വഴി RL ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് gmvgs ആണ് ഇവിടെ vgs ദൃശ്യമാകും ഇപ്പോൾ ഇതിന്റെ ഇൻപുട്ട് വശം വളരെ പരിചിതമാണ് നിങ്ങൾ vi പൂജ്യമായി സജ്ജമാക്കുകയാണെങ്കിൽ C1 ന് കുറുകെയുള്ള ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് എന്താണ് നമ്മൾ ഇത് നിരവധി തവണ കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ C1 ന് കുറുകെയുള്ള റെസിസ്റ്റൻസ് ഇത് അടിസ്ഥാനപരമായി Rs R1 || R2 ആണ് അതിനാൽ C1 ന്റെ പരിമിതി അത് 1RsR1||R2 വളരെ വലുതായിരിക്കണം എന്നതാണ് പതിവുപോലെ C1 കണക്കാക്കുമ്പോൾ നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് C2 എന്നാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഇത് അർത്ഥമാക്കുന്നില്ല കാരണം C2 ന്റെ മൂല്യം എങ്ങനെയാണെങ്കിലും C1 ന്റെ മൂല്യത്തെ ബാധിക്കില്ല സർക്യൂട്ട് ശരിക്കും വിച്ഛേദിച്ചിരിക്കുന്നു ഇപ്പോൾ C2 കണക്കാക്കുന്നത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻപുട്ട് പൂജ്യമായി സജ്ജമാക്കുന്നു ഇൻപുട്ട് പൂജ്യമായതിനാൽ ഗേറ്റിലേക്ക് വൈദ്യുത പ്രവാഹമൊന്നും ഇല്ലാത്തതിനാൽ ഈ വോൾട്ടേജ് പൂജ്യമാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവർത്തിക്കാനാകും നമുക്ക് C1 വളരെ വലുതാണെങ്കിലും അല്ലെങ്കിലും ഇത് ശരിയാണ് അതിനാൽ ഇത് പൂജ്യമായിരിക്കും ഇപ്പോൾ C2 ൽ ഉടനീളം ദൃശ്യമാകുന്ന പ്രതിരോധം നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അത് ചെയ്യുന്നതിന് രണ്ട് വഴികളുണ്ട് ഞാൻ എളുപ്പവഴി തിരഞ്ഞെടുക്കും നിങ്ങൾക്ക് തീർച്ചയായും ഒരു വോൾട്ടേജ് സോഴ്സ് VTEST കണക്റ്റുചെയ്യാൻ കഴിയും ഇത് ഈ ടെർമിനലിനും ആ ടെർമിനലിനുമിടയിൽ കണക്റ്റ് ചെയ്യണം ഒപ്പം കറന്റ് ITEST കണക്കാക്കുകയും അനുപാതം എടുക്കുകയും വേണം ഇപ്പോൾ നമ്മൾ ഇതിനകം തന്നെ കണക്കുകൂട്ടലിന്റെ ഒരു ഭാഗം ചെയ്തു കാരണം ഈ ചിത്രം ഇത് പോലെ കാണപ്പെടുന്നു നമ്മൾക്ക് C2 RL എന്നിവ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഈ സോഴ്സ് ഫോളോവറിന്റെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നു അത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് ഔട്ട്പുട്ട് ടെർമിനൽ ഇപ്പോൾ ഇൻപുട്ട് പൂജ്യമായി സജ്ജമാക്കുമ്പോൾ ഇവിടെ തിരിഞ്ഞുനോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് സോഴ്സ് ഫോളോവറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നു വാസ്തവത്തിൽ ഡ്രെയിൻ ഫീഡ്ബാക്കുള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയറിനും നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നു അതിനാൽ സോഴ്സ് ഫോളോവറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നിങ്ങൾ കാണുന്നു ഞാൻ ഇവിടെ എഴുതിയാൽ അത് ആ പോയിന്റും ഗ്രൌണ്ടും തമ്മിലുള്ള പ്രതിരോധം കാണിക്കുന്നു ഇതാണ് നമുക്ക് ലഭിക്കുക അതിനാൽ C2 ൽ ഉടനീളം ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് എന്താണ് ഇത് RL പ്ലസ് സോഴ്സ് ഫോളോവറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസുമാണെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു നിങ്ങൾ gd അല്ലെങ്കിൽ 1gmgds അവഗണിക്കുകയാണെങ്കിൽ സോഴ്സ് ഫോളോവറിന്റെ ഔട്ട്പുട്ട് പ്രതിരോധം 1gm ആണ് ലാളിത്യത്തിനായി ഞാൻ ഈ പദപ്രയോഗം ഉപയോഗിക്കും എന്നാൽ നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം എന്തായാലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കില്ല അതിനാൽ ഇത് RL1gmന് തുല്യമാണ് അതിനാൽ C2 ന്റെ തടസ്സം എന്താണ് C2 ന്റെ റിയാക്റ്റൻസ് അതിലുടനീളം ദൃശ്യമാകുന്ന റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അതിനാൽ C2 1RLനേക്കാൾ കൂടുതലായിരിക്കണം ഒരു സോഴ്സ് ഫോളോവർ ഒരു സോഴ്സ് ഫോളോവർ പോലെ പെരുമാറാൻ യൂണിറ്റി ഗൈൻ ബഫർ പോലെ എന്തായാലും നിങ്ങൾക്ക് gmRL 1 ആവശ്യമാണ് അതിനാൽ ഇതിനർത്ഥം RL 1gm എന്നാണ് അതിനാൽ ഈ പരിമിതികൾ ഏകദേശം 1RL ആണ് അതിനാൽ വീണ്ടും കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഇത് മുമ്പ് നിരവധി തവണ ചെയ്തതിന് സമാനമായ രീതിയിൽ കണക്കാക്കുന്നു പരിശീലനത്തിനായി ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ ടെസ്റ്റ് സോഴ്സ് യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കാനും സർക്യൂട്ട് വിശകലനത്തിൽ കുറച്ച് അധിക പരിശീലനം നൽകുന്ന കറന്റ് കണ്ടെത്താനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായും എനിക്ക് ലഭിച്ച അതേ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കണം അതിനാൽ ഒരു സോഴ്സ് ഫോളോവറെ രൂപകൽപ്പന ചെയ്യാൻ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഇപ്പോൾ നമ്മളുടെ പക്കലുണ്ട് അതിന്റെ ഗൈൻ gmRL1gmRL അല്ലെങ്കിൽ നിങ്ങൾക്ക് gdss ഉൾപ്പെടുത്തണമെങ്കിൽgmRL||rds1gmRL||rdsആണ് ഏതൊക്കെ സൌകര്യപ്രദമാണെന്നതിനെ ആശ്രയിച്ച് ഞാൻ റെസിസ്റ്റൻസ് ഫോമിന്റെ കണ്ടക്റ്റൻസ് ഉപയോഗിക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക നിങ്ങളും ഇത് ഉപയോഗിക്കണം കാരണം ഇത് സർക്യൂട്ടുകളിൽ സാധാരണ ചെയ്യാറുണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് ശരിക്കും ബയസ് റെസിസ്റ്റൻസ് മൂലമാണ് ഔട്ട്പുട്ട് പ്രതിരോധം1gm അല്ലെങ്കിൽ 1gmgds ആണ് കപ്പാസിറ്ററുകൾക്ക് ഈ പരിമിതികളുണ്ട് അതാണ് C1 ന്റെ പരിമിതികൾ ഇവിടെ ഡ്രൈവിംഗ് സോഴ്സിന്റെ റെസിസ്റ്റൻസ് Rs C2 1RL ൽ കൂടുതലാകണം അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് Rs RL എന്നിവയുടെ മൂല്യം നൽകി ഒരു ഉപയോഗപ്രദമായ സോഴ്സ് ഫോളോവർ രൂപകൽപ്പന ചെയ്യാൻ കഴിയണം RL ന്റെ മൂല്യം കണക്കിലെടുക്കുമ്പോൾ gmRL 1 പോലുള്ള gm തിരഞ്ഞെടുക്കുക Rs ന്റെ മൂല്യം കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾ R1 R2 എന്നിവ തിരഞ്ഞെടുക്കുന്നു അതായത് R1||R2 Rs അതിനാൽ ആ വിധത്തിൽ അറ്റനുവേഷൻ ഇല്ല കൂടാതെ നിങ്ങൾക്ക് മികച്ച യൂണിറ്റി ഗെയിൻ ബഫർ ലഭിക്കും